അതിനാൽ ഇപ്പോൾ നമുക്ക് ഈ റഡാർ ക്രോസ് സെക്ഷൻ നിർവചിക്കുന്നതിനുള്ള ചില സ്റ്റാൻഡേർഡ് ടെർമിനോളജി യിലേക്ക് കടക്കാം അതിനാൽ ഒന്നാമതായി വളരെ നിർവചനം അതിനുള്ള സിംബൽ റിസർവ് സാധാരണയായി സിഗ്മയാണ് അതിനാൽ എനിക്ക് ഇവിടെ ഉള്ളത് 2D 3D എന്നിവയിൽ വ്യത്യസ്ത നിർവചനങ്ങൾ ഉണ്ട് നിർവചനങ്ങൾ വളരെ അവബോധജന്യമാണ് അതു എന്തു പറയുന്നു അതിനാൽ നിരീക്ഷണ പോയിന്റ് വളരെ അകലെയാണെന്നത് പരിധിയാണ് ഫീൽഡ് അങ്ങനെ നിരീക്ഷിച്ചു ശരിയാണ് അതിനാൽ ഇവിടെ ഒരു നഷ്ടമായ ബ്രാക്കറ്റ് ഉണ്ട് ചില ഘട്ടങ്ങളിൽ ഒറിജിനിലെ സംഭവ ഫീൽഡ് വഴി നോർമലൈസ് ചെയ്തു ശരിയാണ് ഇവിടെ ഒരു ഉണ്ടെന്ന് നിങ്ങൾ കാണും എന്തുകൊണ്ടാണ് അത് അവിടെയുള്ളത് എന്നതിലേക്ക് ഞങ്ങൾ വരാം അതിനാൽ കേസ് വളരെ ലളിതമാണ് അതിനാൽ എന്റെ പക്കൽ ഇതുപോലൊരു പ്രതലം ഉണ്ടെന്നും ഞാൻ ഇവിടെ വലതുവശത്ത് എവിടെയോ നിൽക്കുകയാണെന്നും പറയാം ഇതാണ് ഉത്ഭവത്തിൽ നിന്നുള്ള ദൂരം r ഇതാണ് മൂല്യം r ഇതാണ് വെക്റ്റർ 2 D യുടെ കാര്യത്തിൽ ഇതാണ് നിർവചനം 3 D യുടെ കാര്യത്തിൽ ഇതാണ് നിർവചനം എനിക്ക് ഇവിടെ ഒരു ബ്രാക്കറ്റ് നഷ്ടമായി യുടെ ഉള്ളിൽ എനിക്ക് ഒരു ഉണ്ട് എന്നാൽ ആശയം തന്നെയാണ് ഫീൽഡ് ദൂരെ കണ്ടെത്തുക അതിനാൽ ദൂരെയുള്ള ഈ ഫീൽഡിനെ ഫാർ ഫീൽഡ് റൈറ്റ് എന്നും വിളിക്കുന്നു അതിനാൽ ചില ഘട്ടങ്ങളിൽ സംഭവ ഫീൽഡ് തീവ്രതയാൽ നോർമലൈസ് ചെയ്ത ഫാർ ഫീൽഡ് തീവ്രത ഇതാണ് ഏറ്റവും എളുപ്പമുള്ള പോയിന്റ് ഉത്ഭവം ശരിയാണ് ഇപ്പോൾ റഡാറിന്റെ ലോകത്ത് രണ്ട് വ്യത്യസ്ത തരം അളവുകൾ കണക്കാക്കുന്നു അതിനാൽ ഞാൻ ഇവിടെ വരച്ച ഈ ഉദാഹരണത്തിൽ നമുക്ക് ഉറച്ചുനിൽക്കാം ഇത് ഇവിടെയുള്ള ഒരു ആന്റിനയാണെന്ന് നമുക്ക് പറയാം ഇത് നിങ്ങൾക്ക് എയർ ട്രാഫിക് കൺട്രോൾ അറിയാമെന്നും ഇത് ഇവിടെയുള്ള മറ്റൊരു എയർ ട്രാഫിക് കൺട്രോളാണെന്നും പറയാം അതിനാൽ രണ്ടിനും റഡാറുകൾ ഉണ്ട് അതിനാൽ ആദ്യത്തെ ആൾ വിമാനത്തിലേക്ക് ഇതുപോലെ ഒരു തരംഗത്തെ അയയ്ക്കുന്നു ഈ വിമാനം റഡാർ തരംഗം വിമാനത്തിൽ കുതിക്കുമ്പോൾ അത് ഏത് ദിശയിലേക്ക് പ്രതിഫലിക്കും വിദ്യാർത്ഥി ഒരേ ദിശ ഒരു ഉത്തരം ഒരേ ദിശയാണ് വിദ്യാർത്ഥി ഇത് ആശ്രയിച്ചിരിക്കുന്നു ഇത് ഉപരിതലത്തെ ആശ്രയിച്ചിരിക്കുന്നു വിദ്യാർത്ഥി ശരിയാണ് ശരിയാണ് എന്നാൽ ഒരു പൊതു വിമാനമോ ഒരു പൊതു കപ്പലോ നൽകിയാൽ തിരമാല ഏത് ദിശയിലേക്കാണ് ചിതറിപ്പോകുക എന്താണ് പൊതുവെ ഇത് സാമാന്യബുദ്ധിയുള്ള ചോദ്യമാണ് വിദ്യാർത്ഥി അത് തിരികെ വരണം ഞാൻ തിരിച്ചുവരണം അത് ഒരു ഉത്തരമാണ് മറ്റേതെങ്കിലും ഉത്തരമാണോ വിദ്യാർത്ഥി അകലെ വസ്തുവിന്റെ ആകൃതിയെ ആശ്രയിച്ച് അത് എല്ലായിടത്തും പോകും ശരിയാണ് ഒരു പ്രത്യേക വിധത്തിൽ കോണിലുള്ള ഏതെങ്കിലും വശം ഉണ്ടെങ്കിൽ തിരമാല ഒരേ സമയം പുറപ്പെടും അപ്പോൾ ഈ ദിശയിൽ എന്തെങ്കിലും തരംഗമുണ്ടാകുമോ റഡാർ തട്ടുമ്പോൾ അതിന്റെ സ്പോട്ട് സൈസ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുക വാൽ വിരലിൽ എന്തെങ്കിലും പറയാം ചില വ്യതിയാനങ്ങൾ സംഭവിക്കാം അത് അടിസ്ഥാനപരമായി എല്ലാ ദിശകളിലേക്കും പോകാം അതിനാൽ ചിതറിക്കിടക്കുന്ന ഫീൽഡ് എനർജി എല്ലായിടത്തും പോകുന്നു 2 D ൽ 2 pi ന് മുകളിൽ പോകുന്നു 3 D ൽ അത് നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന മൊത്തത്തിൽ പോകുന്നു എന്നാൽ നിങ്ങളുടെ പക്കലുള്ളത് എന്താണ് നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നത് അതിനാൽ രണ്ട് വ്യത്യസ്ത ഇമേജിംഗ് രീതികളുണ്ട് അതിനാൽ മോണോസ്റ്റാറ്റിക് എന്നാൽ ട്രാൻസ്മിറ്ററും റിസീവറും ഒരേ സ്ഥാനം അതായത് ഈ എയർ ട്രാഫിക് കൺട്രോളർ ഒരു തരംഗം അയയ്ക്കുന്നു ഒബ്ജക്റ്റ് ഇവിടെ അവസാനിച്ചു നമുക്ക് അതിനെ ഒബ്ജക്റ്റ് എന്ന് വിളിക്കാം ഈ റിസീവർ വ്യക്തമായും അത് ആ സ്ഥാനത്ത് നിൽക്കുന്നതിനാൽ അതിലേക്ക് തിരികെ വരുന്നവ ശേഖരിക്കുക മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ നടക്കുന്ന മറ്റെല്ലാം അതിന് എന്ത് സംഭവിക്കും അത് നഷ്ടപ്പെട്ടു അതിനാൽ ഇതിനെ മോണോ സ്റ്റാറ്റിക് മോണോ എന്ന് വിളിക്കുന്നു അതായത് ഒരു ശരി അതിനാൽ ഒരേ സ്ഥലത്ത് ഒരു ട്രാൻസ്മിറ്ററും റിസീവറും അതിനാൽ ഇതൊരു മോണോസ്റ്റാറ്റിക് റഡാറാണ് അതിനുള്ള മറ്റൊരു പദമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊരു തരത്തിലുള്ള ഇമേജിംഗ് മോഡാലിറ്റി ബൈ സ്റ്റാറ്റിക് ആണ് അവിടെ ഞാൻ ഇവിടെ മുകളിൽ വരച്ചതുപോലെ നിങ്ങൾക്ക് ലഭിക്കും അതിനാൽ ഒരു ട്രാൻസ്മിറ്റർ ഒബ്ജക്റ്റ് ഇവിടെയുണ്ട് നമുക്ക് ഇവിടെ മറ്റൊരു റിസീവർ പറയാം അതിനാൽ എനിക്ക് Tx ഉം Rx ഉം വ്യത്യസ്തമാണ് അതെ നല്ല ക്യാച്ച് അതിനാൽ ഇത് ചതുരാകൃതിയിലല്ല ചിതറിക്കിടക്കേണ്ടതാണ് ചതുരം ഇതിനകം പുറത്താണ് അതിനാൽ ഇത് 2D അല്ലെങ്കിൽ 3D വലത് ദൂരത്തിൽ ചിതറിക്കിടക്കുന്ന ഫീൽഡാണ് എന്നാൽ ആശയം വ്യക്തമാണ് അതിനാൽ ഇവ ഞാൻ നിങ്ങൾക്ക് നൽകുന്ന നിർവചനങ്ങൾ മാത്രമാണ് വിദ്യാർത്ഥി അതിനാൽ ഇത് 0 ലേക്ക് പ്രവണത കാണിക്കുന്നുണ്ടോ ഓ ഇവിടെ മറ്റൊരു ത്തെറ്റുണ്ട് എക്സൽ ഫീൽഡിനായി ഇത് അതെ ആയിരിക്കണം അതിനാൽ RCS ന്റെ നിർവചനത്തിൽ റിസീവർ ഇവിടെയുള്ള ആംഗിൾ ആണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നു അതിനാൽ ഇതാണ് Rx ആംഗിൾ ഇതാണ് Tx ആംഗിൾ ശരി അതിനാൽ മോണോസ്റ്റാറ്റിക് കേസിനെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ പരിശോധിക്കാൻ അതിനാൽ മോണോസ്റ്റാറ്റിക് എന്നാൽ ഞാൻ അർത്ഥമാക്കുന്നത് 2D കേസ് എന്നാണ് അതുകൊണ്ട് സംഭവ തരംഗം ഇങ്ങനെ വരുന്നുവെന്ന് പറയട്ടെ അപ്പോൾ അത് ഉണ്ടാക്കുന്ന ആംഗിൾ എന്താണ് ഇത് തുടരുമെന്ന് നമുക്ക് പറയാം എല്ലാം ശരിയാണ് ഇപ്പോൾ അത് റഡാറിൽ നിന്ന് പ്രതിഫലിക്കുകയും ഏത് ദിശയിലേക്കാണ് പോകുന്നത് ദിശ തിരിച്ചിരിക്കുന്നു അതിനാൽ വിപരീത ദിശ ഇത് ശരിയാകും അപ്പോൾ അത് ഉണ്ടാക്കുന്ന ആംഗിൾ എന്താണ് ഇതാണ് തീറ്റ ഉണ്ടാക്കുന്ന കോണിനെ നമുക്ക് ചിതറിയ ആംഗിൾ എന്ന് വിളിക്കാം അതിനാൽ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ശരിക്ക് എഴുതാമോ അതിനാൽ ഇതാണ് ഞാൻ ഇവിടെ റിസീവർ ആംഗിളിലേക്ക് RCS നിർവചനത്തിന്റെ റിസീവർ ഭാഗത്തേക്ക് പ്ലഗ് ഇൻ ചെയ്യുന്നത് ശരിയാണ് അതിനാൽ ഒരു മോണോസ്റ്റാറ്റിക് കേസിൽ ഇത് ഇതിനകം പരിഹരിച്ചിരിക്കുന്നു എനിക്ക് തീറ്റയുണ്ട് അവയാണ് RCS കോണിലേക്കുള്ള 2 ആർഗ്യുമെന്റുകൾ അതുപോലെ 3D കേസിൽ ഞാൻ ചിന്തിക്കുകയും ശരിയാക്കുകയും വേണം അതിനാൽ ഇത് നിർവചനം മാത്രമാണ് അതിനാൽ ഇവിടെ വളരെ സങ്കീർണ്ണമായ ഒന്നും പാടില്ല ഇനി നമുക്ക് ചില വിശദാംശങ്ങളിലേക്ക് കടക്കാം ഇപ്പോൾ നമുക്ക് ഉപരിതല ഇന്റഗ്രൽ അല്ലെങ്കിൽ വോളിയം ഇന്റഗ്രൽ സമീപനം എടുക്കാൻ കഴിയുന്ന വിശദാംശങ്ങൾ പ്രശ്നമല്ല അതിനാൽ ഞാൻ ഇവിടെ വോളിയം ഇന്റഗ്രൽ സമീപനം സ്വീകരിച്ചു ഇതാണ് അകലെ നിരീക്ഷിച്ച ഫീൽഡ് കുറച്ച് പൊതു ദൂരം ശരിയാണ് ഇതാണ് എനിക്ക് ഉള്ളത് ഇപ്പോൾ ഈ ബെസ്സൽ ഫംഗ്ഷനുകൾ ഹങ്കെൽ ഹാങ്കെൽ ഫംഗ്ഷനുകൾ പ്രോഗ്രാം ചെയ്തവർക്ക് അറിയാം ഹാൻകെൽ ഫംഗ്ഷൻ അല്ലെങ്കിൽ ബെസൽ ഫംഗ്ഷൻ വിലയിരുത്തുന്നത് അൽപ്പം ചെലവേറിയ പ്രവർത്തനമാണ് ബെസൽ ഫംഗ്ഷൻ ഹങ്കെൽ ഫംഗ്ഷൻ കണക്കാക്കാൻ നിങ്ങൾ MATLAB നോട് ആവശ്യപ്പെടുമ്പോൾ ആ നമ്പർ നിങ്ങൾക്ക് നൽകാൻ അത് ഒരു ആന്തരിക കണക്കുകൂട്ടൽ നടത്തേണ്ടതുണ്ട് കംപ്യൂട്ടറിനോട് കണക്കോ ശരിയോ ചോദിക്കുന്നത് പോലെയല്ല ഇത് ഇപ്പോൾ ആളുകൾ വിമാനത്തിന്റെ RCS കണക്കാക്കാൻ തുടങ്ങുമ്പോൾ അവർക്ക് ഒരു കോണിൽ ആർസിഎസിന്റെ മൂല്യം ആവശ്യമില്ല സാധാരണഗതിയിൽ മൊത്തത്തിലുള്ള പെരുമാറ്റം എന്താണെന്ന് ഞങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു അതിനാൽ 2D യിൽ നിങ്ങൾ RCS കണക്കാക്കും മുഴുവൻ റേഡിയനും ശരിയാണ് അതിനാൽ നിങ്ങൾ വിവിധ വ്യത്യസ്ത സ്ഥാനങ്ങളിൽ കണക്കുകൂട്ടേണ്ടതുണ്ട് നിങ്ങളുടെ റിസീവർ ഇടുകയും ആ ഘട്ടത്തിൽ ചിതറിക്കിടക്കുന്ന ഫീൽഡ് എന്താണെന്ന് കണക്കാക്കുകയും വേണം അതിനാൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ചില ഏകദേശങ്ങളുണ്ട് ഗ്രീൻ ഫംഗ്ഷന്റെ തുടക്കത്തിൽ തന്നെ RCS നിർവചനം തിരിച്ചെത്തിയതായി ഓർക്കുക വളരെ വലിയ x ഈ ഹാങ്കെൽ ഫംഗ്ഷൻ ഇതുപോലെയുള്ള രൂപത്തിനായുള്ള ഈ ഏകദേശ കണക്ക് ഞങ്ങൾ യഥാർത്ഥത്തിൽ കണ്ടിരുന്നു അത് 2 ഡിയിൽ ഒരു വിമാന തിരമാല പോലെയായി കാരണം ഇൻകമിംഗ് അല്ലെങ്കിൽ ഔട്ട്ഗോയിംഗ് തരംഗങ്ങളിൽ ഏതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടതെന്ന് പരിഹരിക്കാൻ ഞങ്ങളെ സഹായിച്ചതും ഇതിലുണ്ട് കാരണം എന്റെ സമയ കൺവെൻഷനും എന്റെ അടയാളവും കൂടിച്ചേർന്നതിനാൽ എനിക്ക് പുറത്തേക്കുള്ള യാത്രാ തരംഗം ലഭിച്ചു അതിനാൽ ഈ പ്രയോഗം ഞങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ട് ഞാൻ ഇപ്പോൾ വെല്ലുവിളികൾ നോക്കാൻ ശ്രമിക്കാം ഹാൻകെൽ ഫംഗ്ഷന്റെ ഏറ്റവും സാധാരണമായ ഈ രൂപമാണ് ഞാൻ എടുത്ത് ഇവിടെ അകത്താക്കിയതെന്ന് കരുതുക എന്റെ റിസീവർ സ്ഥാനം മാറ്റുമ്പോഴെല്ലാം എന്ത് സംഭവിക്കും ഈ ഹാങ്കെൽ ഫംഗ്ഷൻ ഞാൻ വിലയിരുത്തേണ്ടതുണ്ട് വ്യക്തമായും ശരിയാണ് ഇത് അൽപ്പം ചെലവേറിയ പ്രവർത്തനമാണെന്ന കൂടുതൽ വിവരങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകുന്നു അതിനാൽ അത് ചെയ്യുന്നതിനുള്ള ചെലവ് കുറയ്ക്കുന്നതിന് വലുതും വലുതുമായ Rho ok എന്നതിലേക്ക് പോകുമ്പോൾ കൂടുതൽ കൃത്യതയുള്ള ഈ ഏകദേശ ഫോം ഞങ്ങൾ ഉപയോഗിക്കണം അതിനാൽ ഇവിടെ rho y ഈ ദൂരം ശരിയാണ് അതിനാൽ ഞാൻ ഈ പദപ്രയോഗം ഇതിലേക്ക് തിരികെ പ്ലഗ് ചെയ്യുകയാണെങ്കിൽ ഹാൻകെൽ ഫംഗ്ഷൻ ശരിയായി വിലയിരുത്തുന്നതിനേക്കാൾ ഇത് വളരെ വിലകുറഞ്ഞതാണെന്ന് വിലയിരുത്താൻ എന്നെ സഹായിക്കുന്നത് അതാണ് കാരണം ഇതൊരു എക്സ്പോണൻഷ്യലാണ് ഇത് റൂട്ട് റോ റൈറ്റ് കൊണ്ട് ഹരിച്ചിരിക്കുന്നു അതിനാൽ കൃത്യതയിൽ യഥാർത്ഥ നഷ്ടം കൂടാതെ ഇത് കൂടുതൽ കമ്പ്യൂട്ടേഷണൽ കാര്യക്ഷമതയുള്ളതായിരിക്കും അതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം കാണാൻ കഴിയും 2ഡിയിലായിരുന്നു ഇത് 3D യിൽ ഇത് ഞങ്ങളുടെ ഗ്രീൻ ഫംഗ്ഷനായിരുന്നു ഏകദേശ ധാരണകളൊന്നുമില്ല അതിനാൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ RCS ന്റെ നിർവചനത്തിലേക്ക് മടങ്ങുകയാണെങ്കിൽ അതിനാൽ ഇവിടെ വലതുവശത്ത് ഒരു ഓവർ ഉണ്ട് ഇവിടെ ഈ ആദ്യ പദം ചിതറിക്കിടക്കുന്നു അതിനാൽ ഇത് ഏകദേശം ഈ അവിഭാജ്യത്തിൽ നിന്ന് പുറത്തുവരുമെന്ന് എനിക്ക് നിങ്ങൾക്ക് സങ്കൽപ്പിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ അത് സ്ക്വയർ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് ലഭിക്കും ഈ r ഉപയോഗിച്ച് ഞാൻ ഇവിടെ നിന്ന് നേടുകയും റദ്ദാക്കുകയും ചെയ്യും അതിന്റെ ഫലമായി ഞങ്ങൾക്ക് ലഭിക്കുന്നത് RCS ഞാൻ ആയിരിക്കുന്ന ദൂരത്തിൽ നിന്ന് സ്വതന്ത്രമാണ് എന്നതാണ് അത് ആശ്രയിക്കുന്നില്ല അത് അതിന്റെ മൂല്യത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്നല്ല 1 കിലോമീറ്റർ അല്ലെങ്കിൽ 2 കിലോമീറ്റർ എനിക്ക് ഓരോ തവണയും വ്യത്യസ്ത ഉത്തരങ്ങൾ ലഭിക്കുന്നില്ല കാരണം ആ ദൂരം ഇവിടെയുള്ള ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും റദ്ദാക്കപ്പെട്ടിരിക്കുന്നു അതിനാൽ RCS ന്റെ നിർവ്വചനം ഇവിടെ ഉണ്ടായിരിക്കുന്നതിന്റെ കാരണവും 3 D യുടെ കാര്യത്തിൽ എനിക്ക് ശരിയായി സംസാരിക്കേണ്ടതുമാണ് ഒബ്ജക്റ്റിന് മുകളിലൂടെ പോകുകയാണെന്ന് ഓർമ്മിക്കുക എന്നാൽ അത് അനന്തതയിലേക്ക് നീങ്ങുന്നു അതിനാൽ ഈ പദം അടിസ്ഥാനപരമായി ഇവിടെയുള്ള അവിഭാജ്യ ചിഹ്നത്തിൽ നിന്ന് പുറത്തുവരും അത് പുറത്തുവരുമ്പോൾ എനിക്ക് ഡിനോമിനേറ്ററിൽ ഒരു ഉണ്ട് അത് സ്ക്വയർ ചെയ്യണം അതിന്റെ മോഡ് സ്ക്വയർ എടുക്കണം എനിക്ക് ഒരു കിട്ടും അത് ഇവിടെ നിന്ന് റദ്ദാക്കുന്നു ശരി അതിനാൽ യഥാർത്ഥത്തിൽ ഇതാണ് RCS ന്റെ നിർവചനത്തെ പ്രേരിപ്പിച്ചത് കാരണം നിങ്ങൾ വസ്തുവിലേക്കുള്ള ദൂരത്തെ ആശ്രയിക്കാത്ത ഒരു അളവ് റിപ്പോർട്ടുചെയ്യുന്നു അതിനാൽ ഇത് ഒരു വിമാനത്തിന്റെ ആർസിഎസ് ആണെന്ന് ഞാൻ പറയുമ്പോൾ ഇത് ഉപയോഗപ്രദമാണ് നിങ്ങൾ എന്നോട് രേഖാമൂലം ചോദിക്കേണ്ടതില്ല ഏത് അകലത്തിലാണ് ഇത് ഈ വസ്തുവിനെ ചിത്രീകരിക്കുന്നതിനുള്ള ഒരു സാർവത്രിക മാർഗം പോലെയാണ് മറുവശത്ത് ഞാൻ നീക്കം ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഓരോ തവണയും ഞാൻ നിങ്ങളോട് പറയേണ്ടിവരും ഏത് മൂല്യത്തിലാണ് എനിക്ക് RCS ന്റെ വ്യത്യസ്ത മൂല്യങ്ങൾ ലഭിക്കുക ദൂരത്തെ ആശ്രയിക്കുന്നതിൽ നിന്ന് മുക്തി നേടാനുള്ള ഒരു മാർഗമാണിത് അതിനാൽ വൈദ്യുതകാന്തികത്തിലെ വളരെ സാധാരണമായ ഏകദേശ കണക്കായ ഒരു ചെറിയ തരത്തിലുള്ള കൂടുതൽ ലളിതവൽക്കരണം നമുക്ക് ഇവിടെ ചെയ്യാൻ കഴിയും അപ്പോൾ ഈ r മൈനസ് r പ്രൈം നമ്മൾ എങ്ങനെ എഴുതും ഇതുപോലെയുള്ള കാർട്ടീഷ്യൻ കോർഡിനേറ്റുകളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് ഇത് എഴുതാം അതിനാൽ ഓർക്കുക ഈ അവിഭാജ്യ r വോള്യത്തിന്റെ ഉപരിതലത്തിൽ ഒബ്ജക്റ്റിന് മുകളിലാണ് അത് വളരെ അകലെയാണ് അതിനാൽ എനിക്ക് ഇത് ഇങ്ങനെ എഴുതാം അതിനാൽ എനിക്ക് ഊഹിക്കാൻ കഴിയുന്നത് ഇതാണ് എന്റെ ഒബ്ജക്റ്റ് ഇതാണ് എന്നതിനാൽ ഞാൻ ഇത് വിലയിരുത്തുന്നിടത്ത് എന്റെ പോയിന്റ് ശരിയാണെന്ന് പറയട്ടെ എവിടെയോ വളരെ ദൂരെയാണ് അതാണ് RCS r എന്നതിന്റെ നിർവചനം ഒബ്ജക്റ്റിൽ നിന്ന് വളരെ അകലെയാണ് എന്റെ ഒബ്ജക്റ്റ് ഇവിടെ എന്തോ ആണ് അതിനാൽ എനിക്ക് സം ക്യാപിറ്റൽ R സ്ക്വയറിനു തുല്യമായി കണക്കാക്കാം നമുക്ക് ശരി പറയാം അതിനാൽ ഇപ്പോൾ എനിക്ക് ഇത് ഇവിടെ നിന്ന് എടുക്കാൻ കഴിയുന്നത് പോലെ എഴുതാം അതിനാൽ അതിനെ ഹരിച്ചാൽ ഹരിച്ചാൽ a അതെ ഇത് R ആയിരിക്കണം എന്ന് വീണ്ടും പറയുക വിദ്യാർത്ഥി ഏകോപിപ്പിച്ച് എടുത്തത് ഞങ്ങൾ R എടുത്തു അതിനാൽ ഈ പദം ഇവിടെ തുല്യമാണ് അതിനാൽ ഈ സ്ക്വയർ റൂട്ട് ചിഹ്നത്തിൽ നിന്ന് ഞാൻ ഇവിടെ നിന്ന് പുറത്തെടുത്തു അതിനാൽ ഈ ആർ ഇവിടെ നിന്ന് പുറത്തുവന്നു ഇതാണ് എനിക്ക് ലഭിച്ച പ്രയോഗം ഇപ്പോൾ ഈ നിബന്ധനകളിൽ നിന്ന് ആർ ഇവിടെയും പുറത്തും താമസിക്കുന്നതിനാൽ ഇവിടെ നിന്നുള്ള ആരെയും എനിക്ക് അവഗണിക്കാനാകുമെന്ന് നിങ്ങൾക്ക് തോന്നാം അതിനാൽ ഈ 3 പദങ്ങളിൽ നിന്ന് ഇത് x y എന്നിവയിലെ സ്ക്വയർ ആശ്രിതത്വമാണ് ഇത് x y വലത് എന്നിവയിലെ രേഖീയ ആശ്രിതത്വമാണ് അതിനാൽ ഈ പദം യഥാർത്ഥത്തിൽ ആയിരിക്കും വിദ്യാർത്ഥി ചെറുത് ശരിയാണ് അതിനാൽ എനിക്ക് ഇത് R ആയി കണക്കാക്കാം വളരെ ചെറുതും ശരിയും ആകാൻ പോകുന്ന ഈ പദം എനിക്ക് അവഗണിക്കാം അതിനാൽ സാധാരണയായി ചെയ്യുന്ന ഏകദേശ കണക്ക് ആംപ്ലിറ്റ്യൂഡിനാണ് അതിനാൽ എനിക്ക് ഈ rho പദം ഇവിടെയുണ്ട് ഇതാണ് rho എന്നത് വ്യാപ്തിയിലെ ഡിനോമിനേറ്ററിലും ഘട്ടത്തിൽ അത് ശരിയായി ദൃശ്യമാകുന്ന 2 സ്ഥലങ്ങളിലും ദൃശ്യമാകുന്നു വിദ്യാർത്ഥി അതായത് ഇത് റിസീവറിലേക്ക് പോകണം അതെ റിസീവറിന്റെ സ്ഥാനം അതാണ് അതിനാൽ ഇത് Rx അതെ ആംപ്ലിറ്റ്യൂഡ് ടേമിനായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ ഈ പദവും അവഗണിക്കുന്നതിനെ കുറിച്ച് കൂടുതൽ ഏകദേശ കണക്ക് എടുക്കുകയാണെങ്കിൽ അത് മാറുന്നു അതിനാൽ നിങ്ങൾ R ok ന് ഏകദേശം തുല്യമായി മാറ്റിസ്ഥാപിക്കുന്നു അതിനാൽ നിങ്ങൾ ഈ പദവും അവഗണിക്കുകയും നിങ്ങൾ എഴുതുന്ന ഘട്ടം പദത്തിനായി ഞങ്ങൾക്ക് ഇവിടെയുള്ള ബൈനോമിയൽ എക്സ്പാൻഷൻ ഉപയോഗിക്കാം നിങ്ങൾക്ക് ഒരു ലഭിക്കും ഇരുവരും റദ്ദാക്കി അതിനാൽ ഇത് വളരെ സാധാരണമായ ഒരു ഏകദേശ കണക്കാണ് അത് നിങ്ങൾക്ക് വളരെ നല്ല കൃത്യതയും നൽകുന്നു അതിനാൽ ഇതെല്ലാം ചെയ്യുന്നതിന്റെ ലക്ഷ്യം ഞാൻ ഉദ്ദേശിക്കുന്നു ഇത് ആരംഭിക്കുന്നത് അൽപ്പം മടുപ്പിക്കുന്നതായി തോന്നുന്നു നിങ്ങൾ അത് മനസ്സിലാക്കുമ്പോൾ അടിസ്ഥാനപരമായി ഈ പദപ്രയോഗം ശരിയായി വിലയിരുത്തുന്നത് ലളിതമാക്കുക എന്നതാണ് അപ്പോൾ ഇതിനുള്ളിലെ അജ്ഞാതങ്ങൾ എന്തൊക്കെയാണ് ഇത് നിങ്ങൾക്ക് ഇതിനകം അറിയാവുന്നതും നിങ്ങൾ ഇതിനകം കണക്കാക്കിയതും ആയിരിക്കും ഈ പദം വളരെ ലളിതമാവുകയും ചെയ്യും ഇത് ഒരു വിമാന തരംഗ പദമാണ് ഈ റോ ഇവിടെ ഞങ്ങൾ സ്ഥിരമായി എടുക്കുകയായിരുന്നു ഞങ്ങൾ അത് സ്ക്വയർ ചെയ്യുമ്പോൾ അത് ആഹ് അതിനാൽ അത് മാറുന്നു ആർസിഎസിന്റെ നിർവചനത്തിൽ എന്തായാലും പുറത്ത് ഒരു സിറ്റിംഗ് ഉണ്ട് അതിനാൽ അത് ശരിയായി റദ്ദാക്കുന്നു അതിനാൽ ഇത് അങ്ങനെയാണ് ഇവ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏകദേശ കണക്കുകളാണ് അതിനാൽ ഇതാണ് ആംപ്ലിറ്റ്യൂഡ് ടേം ഇതാണ് ഘട്ടം അതിനാൽ ആംപ്ലിറ്റ്യൂഡ് ടേമിൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഏകദേശ കണക്കുകളും ഘട്ട ടേമിൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഏകദേശ കണക്കുകളും വിദ്യാർത്ഥി ഘട്ടം അതെ റിസീവറിന്റെ സ്ഥാനം വിദ്യാർത്ഥി അതിനാൽ ഞങ്ങൾ നിർവചനം അനന്തതയിലേക്ക് ചായണം അതെ എനിക്കുണ്ടെങ്കിൽ അതെ അതിനാൽ ഇവിടെ ഞാൻ പ്രൈം കോർഡിനേറ്റ് തിരഞ്ഞെടുത്തു അതിനാൽ RCS ന്റെ എന്റെ നിർവ്വചനം ഇതായിരിക്കും വിദ്യാർത്ഥി അത് ആയിരിക്കും ഇവിടെ അത് ശരിയായിരിക്കും അതിനാൽ ഞങ്ങൾ ഇത് ഉണ്ടാക്കും വിദ്യാർത്ഥി എന്തുകൊണ്ടാണ് ഞങ്ങൾ പോർട്ട് മെഷീൻ തിരഞ്ഞെടുക്കുന്നത് നിങ്ങൾക്ക് കഴിയും പക്ഷേ ഇത് ഞാൻ നിങ്ങൾക്ക് നൽകുന്നു നിങ്ങൾക്ക് രണ്ടിനും ഒരേ ഏകദേശ കണക്ക് തിരഞ്ഞെടുക്കാം എന്നാൽ ഇത് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏതാണ്ട് ഒരേ കൃത്യത നൽകുന്നു അതിനാൽ ഇത് കാരണം പ്രൈം കോർഡിനേറ്റുകളുടെ കാര്യത്തിൽ എനിക്ക് ഇവിടെ ഫീൽഡ് ഉണ്ടായിരുന്നു ഇവിടെയുള്ള ഈ നിർവ്വചനം ഇത് അൺപ്രൈംഡ് കോർഡിനേറ്റുകളുടെ അടിസ്ഥാനത്തിലാണ് അനുമാനിക്കുന്നത് സംവഹനത്തിലെ ഒരു ചെറിയ മാറ്റം ശരിയാണ് നിർവചനത്തിൽ തീറ്റ I ചിത്രത്തിലേക്ക് വരുന്നത് എവിടെയാണ് ഞാൻ കണക്കാക്കുന്ന ഒരു ചിതറിക്കിടക്കുന്ന ഫീൽഡ് എന്റെ ലഭിക്കുന്നതിന് ഈ സമവാക്യങ്ങൾ ഞാൻ പരിഹരിച്ചപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതിനെ ആശ്രയിച്ചിരിക്കും എന്നതിനാൽ ഇത് പ്രാധാന്യമർഹിക്കുന്നുണ്ടെങ്കിലും എനിക്ക് സംഭവ ഫീൽഡിന്റെ മൂല്യം ആവശ്യമായിരുന്നു അല്ലാത്തപക്ഷം നിങ്ങൾ സമവാക്യങ്ങളുടെ സിസ്റ്റത്തിലേക്ക് പോകും നിങ്ങൾ ഇവിടെ സമവാക്യത്തിലേക്ക് തിരിഞ്ഞുനോക്കിയാൽ സംഭവ ഫീൽഡ് ഇവിടെത്തന്നെ ദൃശ്യമാകും അതിനാൽ സംഭവ ഫീൽഡിന്റെ മൂല്യം അനുസരിച്ച് എക്സ്പ്രഷനിലെ എന്റെ കറന്റ് സജ്ജീകരിച്ചു അതിനാൽ എനിക്ക് ലഭിക്കുന്ന പരിഹാരം ഞാൻ ഏത് കോണിലാണ് വിമാനത്തിന്റെ രൂപം ശരിയായി പ്രകാശിപ്പിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ അതിനാലാണ് ഇത് ഒരു ഫംഗ്ഷൻ വിദ്യാർത്ഥി ഹലോ അതിനാൽ ഉത്ഭവം ഇവിടെ വസ്തുവിനുള്ളിലാണ് വിദ്യാർത്ഥി അറ്റ് ഉത്ഭവത്തെ കേന്ദ്രീകരിച്ച് ഒരു വസ്തു ഉണ്ടായിരിക്കട്ടെ അത് ഏകദേശം ആ പ്രദേശത്താണ് ചിലത് അതെ അതിനാൽ ഇതാണ് വസ്തു വിദ്യാർത്ഥി അതിനാൽ നിങ്ങൾ ഉത്ഭവം പ്രതീക്ഷിക്കുന്നു r ബിറ്റ് r പ്രൈമിലേക്ക് പോകുന്നില്ല അതെ r ദൂരത്തേക്ക് പോകുന്നില്ല കാരണം പരിമിതമായ ഒബ്ജക്റ്റ് എന്റെ റിസീവർ എവിടെയാണ് അനന്തതയിലേക്ക് കൊണ്ടുപോകുക എന്നാണ് നിർവചനം പറയുന്നത്